പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഇൻ ഓൺലൈൻ സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക്സ് എന്ന കോഴ്സിലേക്ക് തിരികെ സ്വാഗതം ഇത് ആറാം ആഴ്ചയാണ് അതിനാൽ നമ്മൾ ഇതുവരെ കണ്ടത് പൊതുവെ ഓൺലൈൻ സോഷ്യൽ മീഡിയയുടെ അവലോകനമാണ് ലിനക്സ് പൈത്തൺ ട്വിറ്റർ എപിഐ മോംഗോ ഡിബി മൈഎസ്ക്യുഎൽ Linux Python Twitter API Mongo DB MySQL എന്നിവയെക്കുറിച്ച് നമുക്ക് ധാരാളം ട്യൂട്ടോറിയലുകൾ ഉണ്ടായിരുന്നു തുടർന്ന് ഞാൻ വിശ്വാസവും വിശ്വാസ്യതയും പോലുള്ള വിഷയങ്ങളിലേക്ക് പോയി പിന്നെ സ്വകാര്യത കണ്ടു എന്താണ് പൊലീസിങ് എന്താണ് ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്രത്യേകമായി ഇന്ത്യയിലെ പോലീസ് ഓർഗനൈസേഷനുകൾ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ് ഗവേഷണ പ്രശ്നങ്ങൾ ഈ സോഷ്യൽ മീഡിയ സേവനങ്ങളിൽ നിന്ന് നിങ്ങൾ ശേഖരിക്കുന്ന ഡാറ്റയിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ പഠിക്കാൻ കഴിയുന്ന ചോദ്യങ്ങൾ എന്നിവ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു നമ്മൾ കണ്ടത് പെട്ടെന്ന് പറയാം ഒന്നിലധികം പോലീസ് ഓർഗനൈസേഷനുകൾ ഫേസ്ബുക്ക് ട്വിറ്റർ എന്നിവ ഉപയോഗിച്ച് പൌരന്മാരുമായി കാര്യങ്ങൾ പങ്കിടുന്നതിനും ആശയവിനിമയം നടത്തുന്നതിനും സ്വീകരിച്ചിട്ടുണ്ട് അതാണ് നമ്മൾ പൊലീസിങ്ന്റെ പശ്ചാത്തലത്തിൽ കണ്ട വിഷയം നമ്മൾ കണ്ട ഒരു പ്രത്യേക ചോദ്യം പ്രവർത്തനക്ഷമമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഈ ഡാറ്റ എങ്ങനെ ഉപയോഗിക്കാം എന്നതാണ് നമുക്ക് ചില പ്രവർത്തനപരമായ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുമോ എന്തെങ്കിലും രസകരമായ വിധികൾക്കായി ഈ വിവരങ്ങൾ ഉപയോഗിക്കാൻ കഴിയുമോ ഈ സന്ദർഭത്തിൽ ഈ സോഷ്യൽ മീഡിയ സേവനങ്ങളിൽ പോസ്റ്റു ചെയ്യുന്ന ടെക്സ്റ്റ് ഉള്ളടക്കം ചില പ്രവർത്തനപരമായ വിവരങ്ങൾ എടുക്കുന്നതിന് എങ്ങനെ ഉപയോഗിക്കാമെന്നും നമ്മൾ കണ്ടു ഉദാഹരണത്തിന് ഈ നെറ്റ്വർക്കുകളിൽ പോസ്റ്റുചെയ്യുന്ന പൌരന്മാരുടെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ഈ വൃക്ഷം കാണിക്കുന്നു ഉദാഹരണത്തിന് അത് പറയുന്നത് ഈ വ്യക്തിയെ ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ ഈ വ്യക്തിയെ തൂക്കിക്കൊല്ലുകയോ വേണം എന്നാണ് അതിനാൽ ഇവ ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ മറ്റ് സോഷ്യൽ മീഡിയ സേവനങ്ങളിലോ പോസ്റ്റുചെയ്യുന്നതാണ് പൌരന്മാരുടെ ആവശ്യകതകൾ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ആഗ്രഹങ്ങൾ നോക്കാം അതാണ് പൌരന്മാർക്ക് പോലീസിൽ നിന്ന് താൽപ്പര്യമുള്ളത് ഇവ കൂടുതൽ കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അത്തരം ആളുകളുടെ ശിക്ഷ ഇവിടെ കാണാനും ബി സി പി സാറിന് നന്ദി പറയാനും നമ്മൾ ആഗ്രഹിക്കുന്നു ഇത് നമ്മൾ നേരത്തെ കണ്ട ഒന്നാണ് നമ്മൾ ഇത് വേഗത്തിൽ നോക്കാൻ മാത്രം പോകുന്നു നമ്മൾ പ്രത്യേകമായി കണ്ട നാല് ചോദ്യങ്ങൾ ഇവയൊക്കെയാണ് പ്രസക്തമായ സവിശേഷതകൾ ഏത് വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് പോലീസും പൌരന്മാരും തമ്മിലുള്ള ഇടപഴകൽ എങ്ങനെ നടക്കുന്നു പൌരന്മാർക്കും പോലീസിനും ഇടയിൽ എന്ത് വൈകാരികമായ കൈമാറ്റങ്ങൾ നടക്കുന്നു പ്രത്യേകിച്ചും നമ്മൾ ഉത്തേജനം അക്രമം വിഷയങ്ങൾ എന്നിവ നോക്കി അവസാനമായി നമ്മൾ കോഗ്നിറ്റീവ് ആൻഡ് സോഷ്യൽ ഓറിയന്റേഷൻ ഭാഷാപരമായ ആട്രിബ്യൂട്ടുകൾ യൂണിഗ്രാം ബിഗ്രാം എന്നിവയും അതിനു ചുറ്റുമുള്ള വിഷയങ്ങളും നോക്കി ഈ ഡാറ്റയിൽ പ്രത്യേകിച്ചും നമ്മൾ കണ്ടത് 2010 നും 2015 നും ഇടയിലുള്ള 85 പൊതു ഔദ്യോഗിക വകുപ്പുകളിൽ നിന്നുള്ള ഡാറ്റ ശേഖരിച്ചു എന്നതാണ് 47474 വോൾ പോസ്റ്റുകളിലും 85000 സ്റ്റാറ്റസ് അപ്ഡേറ്റുകളിലും വിശകലനം നടത്തി തീർച്ചയായും ഇതെല്ലാം ചെയ്യുന്നതിന്റെ സാങ്കേതിക ഉദ്ദേശം പോലീസ് സംഘടനകളെ സഹായിക്കുന്നതിനും പോലീസുമായി നന്നായി ഇടപെടാൻ പൌരന്മാർക്ക് ഉപയോഗിക്കാവുന്ന സാങ്കേതികവിദ്യകൾ നിർമ്മിക്കുന്നതിനും പൌരന്മാരുമായി മികച്ച രീതിയിൽ ഇടപെടുന്നതിനും സമൂഹത്തെ ഒരുക്കുന്നതിനും പോലീസിന് ഉപയോഗിക്കാൻ കഴിയുന്ന സാങ്കേതികവിദ്യകൾ നിർമ്മിക്കുന്നതിനും സഹായിക്കുന്നു അതിനാൽ ഈ ആശയങ്ങൾ സോഷ്യൽ മീഡിയയിൽ പഠിക്കുക എന്നതാണ് നമ്മുടെ വിശാലമായ ലക്ഷ്യം കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞതുപോലെ ഫോറത്തിൽ ആളുകൾ അവരുടെ സിറ്റി പോലീസ് ഓർഗനൈസേഷനുകളെയും ഇടപെടലുകളെയും കുറിച്ച് സംസാരിക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് വരെ അങ്ങനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല എന്നാൽ ഉള്ളടക്കം വെറും ഉള്ളടക്കം മാത്രമാണെന്ന് നിങ്ങളിൽ പലരും ഇപ്പോൾ മനസ്സിലാക്കിയെന്ന് ഞാൻ കരുതുന്നു എന്നാൽ വിദ്യാർത്ഥികൾ ഫോറത്തിൽ രസകരമായ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത് കാണുന്നത് വളരെ നല്ലതാണ് അതിനാൽ നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്ന് മറ്റൊരു വിഷയത്തിലേക്ക് പോകാം ഇപ്പോൾ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇ ക്രൈം ആണ് ഇലക്ട്രോണിക് കുറ്റകൃത്യങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ഇ കുറ്റകൃത്യം സൈബർ കുറ്റകൃത്യം എന്നിവയെ കുറിച്ച് എന്നാൽ നമ്മൾ സോഷ്യൽ മീഡിയ പശ്ചാത്തലത്തിൽ മാത്രം ആയിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇന്റർനെറ്റ് ഉപയോഗിച്ചും വെബ് ഉപയോഗിച്ചും എല്ലായിടത്തും കുറ്റകൃത്യങ്ങൾ നടക്കുന്നു എന്നാൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഇത്തരം കുറ്റകൃത്യങ്ങളിൽ മാത്രമേ ആളുകൾ ശ്രദ്ധിക്കുന്നുള്ളു കോഴ്സിലെ പാറ്റേൺ എന്ന നിലയിൽ ഈ ആഴ്ചയുടെ ആദ്യ ഭാഗത്ത് നമ്മൾ ചില അടിസ്ഥാനകാര്യങ്ങൾ ചെയ്യും ഈ സോഷ്യൽ മീഡിയ സേവനങ്ങളിൽ നിന്ന് കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ശേഖരിച്ച ഡാറ്റ ഉപയോഗിച്ച് ഒരാൾക്ക് ഉത്തരം നൽകാൻ കഴിയുന്ന ചില ഗവേഷണ ചോദ്യങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കും സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ് ടൂളുകളും എൻഎൽടികെയും നോക്കുകയും ഇതിന്റെ ട്യൂട്ടോറിയലുകൾ നമ്മൾ ചെയ്യും കൂടാതെ അടുത്ത ഏതാനും ആഴ്ചകളിൽ നമുക്ക് ചെയ്യാൻ മറ്റ് ട്യൂട്ടോറിയലുകളും ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതിനാൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിന്റെ വിശദാംശങ്ങൾ ലഭിക്കുന്നതിന് മുമ്പ് ഞാൻ ഉൾക്കൊള്ളിക്കുന്ന കുറ്റകൃത്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഇവിടെയുണ്ട് ഒന്നോ രണ്ടോ വിഷയങ്ങൾ നമ്മൾ വിശദമായി നോക്കാൻ പോകുന്നു പക്ഷേ അതിനുമുമ്പ് ഞാൻ ഓൺലൈൻ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചില കുറ്റകൃത്യങ്ങൾ ചർച്ച ചെയ്യട്ടെ ഇതിൽ ചിലത് നമുക്ക് ഇതിനകം അറിയാമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നാൽ ഈ സോഷ്യൽ മീഡിയ സേവനങ്ങളിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ എന്താണെന്നുള്ള നിങ്ങളുടെ ധാരണ ലഭിക്കാൻ ഞാൻ അത് വീണ്ടും ചർച്ച ചെയ്യട്ടെ ഇവ ഒരു പ്രത്യേക ക്രമത്തിലും ക്രമീകരിച്ചിട്ടില്ല അവ സമഗ്രമല്ല ആദ്യത്തേത് ഫിഷിംഗ് ആണ് സോഷ്യൽ മീഡിയ സേവനങ്ങളിലെ ഫിഷിംഗ് പ്രശ്നം എന്നത് ഇമെയിലുകൾ പോലെ പരമ്പരാഗത രീതിയിൽ വിശദാംശങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനോ ലോഗിൻ ചെയ്യുന്നതിനോ ആരെയെങ്കിലും കബളിപ്പിക്കുക എന്നതാണ് ഇമെയിൽ ഡൊമെയ്നുകളിൽ ദയവായി ഈ ലിങ്കിൽ ക്ലിക്കുചെയ്യുക അല്ലെങ്കിൽ പാസ്വേഡ് അപ്ഡേറ്റുചെയ്യുന്നതിന് ദയവായി ലിങ്കുകളിൽ ക്ലിക്കുചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൌണ്ട് കാലഹരണപ്പെട്ടു അതിനാൽ നിങ്ങളുടെ അക്കൌണ്ട് സജീവമാക്കുന്നതിന് ഈ ലിങ്കിൽ ക്ലിക്കുചെയ്യുക എന്നിങ്ങനെ നിങ്ങൾക്ക് ഇമെയിലുകൾ ലഭിക്കും നിങ്ങൾ ഈ ലിങ്കിൽ ക്ലിക്കുചെയ്യുമ്പോൾ നിങ്ങളെ അത് ഒരു വ്യാജ വെബ്സൈറ്റിലേക്ക് കൊണ്ടുപോകും അത് ചിലപ്പോൾ നിയമാനുസൃതമായ ഒരു വെബ്സൈറ്റ് പോലെ കാണപ്പെടും ചിലപ്പോൾ ഇത് ഒരു നിയമാനുസൃത വെബ്സൈറ്റ് പോലെ തോന്നുകയുമില്ല നിങ്ങൾ അവിടെ പോകുമ്പോൾ അത് യൂസർനെയിം ഉം പാസ്വേഡും ആവശ്യപ്പെടും നിങ്ങൾ യൂസർനെയിം ഉം പാസ്വേഡും നൽകുമ്പോൾ നിങ്ങൾ അടിസ്ഥാനപരമായി നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ മറ്റൊരാളുമായി പങ്കിടുന്നു ഇത്തരത്തിലുള്ള ഇമെയിലുകൾ വളരെക്കാലമായി നടക്കുന്നുണ്ട് കൂടാതെ ഈ ഇമെയിലുകൾ ഉപയോഗിച്ച് നിരവധി സങ്കീർണ്ണമായ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് മറ്റൊന്ന് സ്ഫിയർ ഫിഷിംഗ് ആണ് നിങ്ങൾ ഒരു കൂട്ടം ആളുകളെ ടാർഗെറ്റുചെയ്യുന്ന ഒരു മാർഗമാണ് സ്ഫിയർ ഫിഷിംഗ് ഉദാഹരണത്തിന് ഐഐഐടി യിലെ പികെ യിൽ നിന്ന് വരുന്ന ഒരു ഇമെയിൽ ആണെന്ന് പറഞ്ഞ് ഈ കോഴ്സ് എടുക്കുന്ന ആളുകളെ എനിക്ക് ടാർഗെറ്റു ചെയ്യാനാകും കോഴ്സിനെക്കുറിച്ച് ഞാൻ വെബിൽ പോസ്റ്റ് ചെയ്ത കൂടുതൽ ലിങ്കുകൾ അറിയാൻ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക സന്ദേശം വരാം നിങ്ങളിൽ ചിലർക്ക് ഞാൻ കോഴ്സിനെക്കുറിച്ച് സംസാരിക്കുന്നതിൽ താൽപ്പര്യമുണ്ടാകാം നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്യും എന്നാൽ ഇത് യഥാർത്ഥത്തിൽ നിയമാനുസൃതമായ ഇമെയിലോ നിയമാനുസൃത ലിങ്കോ അല്ല ഇതാണ് സ്ഫിയർ ഫിഷിംഗ് വൈയലിംഗ് എന്ന് വിളിക്കപ്പെടുന്ന മറ്റ് തരത്തിലുള്ള ഫിഷിംഗുകളും ഉണ്ട് ഈ ഫിഷിംഗ് ഇമെയിലുകൾ ഒരു കമ്പനിയുടെ നിർദ്ദിഷ്ട സിഇഒ മാരെ ലക്ഷ്യമിടുന്നു പല തരത്തിലുള്ള ഫിഷിംഗ് ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് അതിനാൽ അത് പരമ്പരാഗതമാണ് എന്നാൽ ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ നെറ്റ്വർക്കിലേക്ക് നീങ്ങുമ്പോൾ ഈ ആക്രമണങ്ങൾ സോഷ്യൽ മീഡിയ സേവനങ്ങളിലും കാണപ്പെടുന്നു ഉദാഹരണത്തിന് ട്വിറ്റർ ടൈംലൈനിലെ ഒരു ലിങ്ക് നിങ്ങളോട് പറയും കുറച്ച് പണം ലഭിക്കാൻ ഈ ലിങ്കിൽ ക്ലിക്കുചെയ്യുക നിങ്ങൾ ഈ ലിങ്കിൽ ക്ലിക്കുചെയ്യുമ്പോൾ നിങ്ങൾ സൃഷ്ടിച്ച ഫേസ്ബുക്ക് പാസ്വേഡ് മാറ്റുന്നതിന് ദയവായി ഈ ലിങ്കിൽ ക്ലിക്കുചെയ്യാൻ അത് ആവശ്യപ്പെടും അല്ലെങ്കിൽ ഫേസ്ബുക്കുമായുള്ള നിങ്ങളുടെ ആക്സസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് പറയും അതിനാൽ പാസ്വേഡ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് ഈ ലിങ്കിൽ ക്ലിക്കുചെയ്യുക എന്ന് ആവശ്യപ്പെടും പരമ്പരാഗത രീതിയിൽ നിങ്ങൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ യഥാർത്ഥത്തിൽ ഒരു വ്യാജ വെബ്സൈറ്റിൽ പോയി വ്യക്തിഗത വിവരങ്ങൾ നൽകുകയും ചെയ്യും അതാണ് ഫിഷിംഗ് ഇമെയിലുകളിൽ തന്നെ പരമ്പരാഗത രീതികളിലെന്നപോലെ നിങ്ങൾക്ക് ഇത് ഒരു ഫിഷിംഗ് ആയി കരുതാം അത് സോഷ്യൽ മീഡിയ സേവനങ്ങളിൽ വ്യാപിക്കും ഫേസ്ബുക്കിൽ ഒരു ലിങ്ക് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ട്വിറ്ററിൽ ഒരു ലിങ്ക് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു ഇമെയിൽ ഉണ്ടായിരിക്കാം ഒരു വിഷയത്തെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ ഈ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്യുക എന്ന് സന്ദേശം ലഭിക്കും ഇത് നിങ്ങളെ ഒരു വ്യാജ വെബ്സൈറ്റിലേക്ക് നയിച്ചേക്കാം അതിനാൽ അത് ഫിഷിംഗ് ആണ് അതിനാൽ ഫിഷിംഗിലെ ഉദാഹരണങ്ങൾ ഇപ്പോൾ നടക്കുന്നതോ അല്ലെങ്കിൽ കുറച്ചുകാലമായി നിലനിൽക്കുന്നതോ ആയ ഉദാഹരണം നിങ്ങളുടെ അക്കൌണ്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നും അത് ദയവായി പരിശോധിച്ചുറപ്പിക്കുക എന്ന് ഫെയ്സ്ബുക്ക് സാങ്കേതിക പിന്തുണ നിങ്ങൾക്ക് ഒരു അറിയിപ്പ് അയക്കുന്നു ഫേസ്ബുക്ക് പുതിയ ലോഗിൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഇമെയിലുകൾ ഫേസ്ബുക്ക് ഒരു പുതിയ ലോഗിൻ സിസ്റ്റം കണ്ടുപിടിച്ചതായി പറയുന്നു ഈ പുതിയ ലോഗിൻ സിസ്റ്റത്തിൽ നിങ്ങളുടെ അക്കൌണ്ട് സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ ഈ അക്കൌണ്ട് ഫേസ്ബുക്ക് അക്കൌണ്ടിൽ ലയിപ്പിക്കാൻ ഈ ലിങ്കിൽ ക്ലിക്കുചെയ്യുക അത്തരം ഇമെയിലുകൾ നിങ്ങള്ക്ക് ലഭിക്കാറുണ്ട് നിങ്ങൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ഫേസ്ബുക്ക് ക്രെഡൻഷ്യലുകൾ കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു കാരണം നിങ്ങളുടെ ഫേസ്ബുക്ക് ക്രെഡൻഷ്യലുകൾ എനിക്കറിയാമെങ്കിൽ ഞാൻ നിങ്ങളുടെ സുഹൃത്തുക്കളെ അറിയും നിങ്ങളുടെ താൽപ്പര്യം സമയം ചെലവഴിക്കുന്ന രീതി നിങ്ങൾക്ക് താൽപ്പര്യമുള്ള വിഷയങ്ങൾ എന്നിവയെക്കുറിച്ച് ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നു ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് എതിരെ ഉപയോഗിക്കാം അതിനാൽ ഇമെയിൽ വിലാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഫേസ്ബുക്ക് ക്രെഡൻഷ്യലുകൾ കൂടുതൽ പ്രചാരത്തിലാകാനുള്ള കാരണം അതാണ് അതാണ് ഫിഷിംഗ് ഓൺലൈൻ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചില വ്യാജ കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം വ്യാജ ഉപഭോക്തൃ സേവന അക്കൌണ്ടുകളാണ് ഒരു ഉദാഹരണം എനിക്ക് ഒരു പ്രശ്നമുണ്ട് ഈ ബാങ്കുമായി എനിക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഒരു ട്വീറ്റ് പോസ്റ്റ് ചെയ്തു ഉദാഹരണത്തിന് എന്റെ ബാങ്കിന്റെ വെബ് സൈറ്റ് പ്രവർത്തിച്ചില്ല അതിനാൽ അത് നിരാശാജനകമാണ് അവർ യഥാർത്ഥത്തിൽ ശരിയായ ബാങ്കിനെയോ സംഘടനയെയോ ടാഗുചെയ്യുന്നു ഉദാഹരണത്തിന് എച്ച്ഡിഎഫ്സി ബാങ്ക് ഐസിഐസിഐ ബാങ്ക് എന്നിവയെ ടാഗ് ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഇത്തരത്തിലുള്ള ഓർഗനൈസേഷനുകൾക്ക് നിയമാനുസൃതമായ അക്കൌണ്ടുകളുണ്ട് ട്വിറ്റർ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അവ ടാഗുചെയ്യാനാകും അതിനാൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇത് ഒരു യഥാർത്ഥ ട്വീറ്റും യഥാർത്ഥ ഉപഭോക്താവ് യഥാർത്ഥ പ്രശ്നം ചോദിക്കുന്നതുമാണ് വഞ്ചകർ ചെയ്യുന്നത് ഈ ട്വീറ്റുകൾ കണ്ടുപിടിക്കുന്നു ഇത്തരത്തിലുള്ള ട്വീറ്റുകൾ തിരിച്ചറിയാൻ അവർക്ക് സംവിധാനങ്ങളുണ്ട് ഈ ട്വീറ്റിന് മറുപടി നൽകുന്നത് ബാങ്ക് ആണ് എന്ന വ്യാജേന അവർ ഈ ട്വീറ്റുകൾക്ക് മറുപടി നൽകുന്നു യഥാർത്ഥ അക്കൌണ്ടുമായി വളരെ സാമ്യമുള്ള അക്കൌണ്ടുകൾ അവർ സൃഷ്ടിക്കുകയും യഥാർത്ഥ അക്കൌണ്ട് യഥാർത്ഥ ഓർഗനൈസേഷൻ നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ പോസ്റ്റിന് മറുപടി നൽകുകയും ചെയ്യും ഈ ഉദാഹരണത്തിൽ സാധാരണ മറുപടി ഇതായിരിക്കും ഇതിനായി ഞങ്ങൾ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു ചാനലിലെ സുരക്ഷിത സൈൻ വഴി നിങ്ങളുടെ അക്കൌണ്ടിലേക്ക് ലോഗിൻ ചെയ്യുക ഇതാണ് ഉപഭോക്തൃ സേവന അക്കൌണ്ട് യഥാർത്ഥ ഉപഭോക്താക്കൾ ഒരു യഥാർത്ഥ ബാങ്കിനോ ഓർഗനൈസേഷനോ ടാഗുചെയ്യുമ്പോഴോ കണക്റ്റുചെയ്യുമ്പോഴോ വ്യാജ കാര്യങ്ങൾ നടക്കുന്നു തട്ടിപ്പുകാർ യഥാർത്ഥ അക്കൌണ്ടിനോട് സാമ്യമുള്ള അക്കൌണ്ടുകൾ സൃഷ്ടിക്കുകയും യഥാർത്ഥത്തിൽ ഉപഭോക്താവുമായി ഇടപഴകുകയും ചെയ്യുന്നു ഇത് വ്യാജ ഉപഭോക്തൃ സേവന അക്കൌണ്ട് പ്രശ്നമാണ് ഈ പ്രത്യേക ഉദാഹരണം ട്വിറ്ററിലാണ് എന്നാൽ എല്ലാ സോഷ്യൽ നെറ്റ്വർക്കുകളിലും അത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് ഒരാൾക്ക് ചിന്തിക്കാം കാരണം ഈ നിയമാനുസൃത സംഘടനകളെല്ലാം യഥാർത്ഥത്തിൽ ഉപഭോക്താക്കളുമായി സംവദിക്കാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു ജനപ്രിയ പോസ്റ്റിലെ വ്യാജ അഭിപ്രായങ്ങളാണ് മറ്റൊന്ന് വളരെ പ്രചാരം നേടിയ ചില പോസ്റ്റുകൾ നമുക്ക് എടുക്കാം പ്രധാനമന്ത്രി എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒബാമ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ഈ പോസ്റ്റുകൾ വളരെ ജനപ്രിയമാകും ഈ പോസ്റ്റുകൾ വളരെ ജനപ്രിയമാകുമ്പോൾ ധാരാളം അഭിപ്രായങ്ങളും ഉണ്ടാകും ഉദാഹരണത്തിന് നിങ്ങൾ ഒളിമ്പിക്സ് ഫേസ്ബുക്ക് പേജിലോ ട്വിറ്ററിലോ ഹാഷ്ടാഗിലോ നോക്കുകയാണെങ്കിൽ ആളുകൾ യഥാർത്ഥത്തിൽ ഫേസ്ബുക്ക് പേജുകളിലൂടെയും ട്വിറ്റർ അക്കൌണ്ടുകളിലൂടെയും ഒളിമ്പിക്സിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ധാരാളം സംസാരിക്കുന്നു അതിനാൽ സ്കാമർമാർ ചെയ്യുന്നത് അവർ യഥാർത്ഥത്തിൽ ഫേസ്ബുക്ക് ഉപയോക്താക്കളായി നടിക്കുകയും അവർ ഇതിനെക്കുറിച്ച് അഭിപ്രായമിടുകയും ചെയ്യും ഉദാഹരണത്തിന് എനിക്ക് വളരെ നിയമാനുസൃതമായി തോന്നുന്ന ഫേസ്ബുക് അക്കൌണ്ട് സൃഷ്ടിക്കാൻ കഴിയും എനിക്ക് ഈ പേജുകളിൽ വളരെ ജനപ്രിയമായ ഒളിമ്പിക്സ് സംബന്ധമായ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുകയും ഒരു വ്യാജ വെബ്സൈറ്റിലേക്ക് പോകാൻ ഞാൻ നിങ്ങളെ നിർബന്ധിക്കുകയും നിങ്ങളുടെ വിവരങ്ങൾ നേടുകയും ചെയ്യും നിങ്ങൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അത് ചില മാൽവെയറുകൾ ഡൌൺലോഡ് ചെയ്യുകയും അതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യും അതിനാൽ ഇത് രണ്ടാമത്തെ തരത്തിലുള്ള വ്യാജ കാര്യമാണ് ഇത് ജനപ്രിയ പോസ്റ്റുകളിലെ വ്യാജ അഭിപ്രായങ്ങളാണ് കാരണം ഇത് കൂടുതൽ ഫാഷൻ ആകുന്നതും കൂടുതൽ ആളുകൾ യഥാർത്ഥത്തിൽ കാണുന്നതുമാണ് ആളുകൾക്ക് കൂടുതൽ താൽപ്പര്യമുള്ള വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൂന്നാമത്തേത് വ്യാജ തത്സമയ സ്ട്രീമിംഗ് വീഡിയോകളാണ് ഇത് പ്രത്യേകിച്ച് ഒളിമ്പിക്സിന്റെയും ക്രിക്കറ്റ് ലോകകപ്പു മത്സരങ്ങളുടെയും അതുപോലുള്ള കാര്യങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് സംഭവിക്കുന്നത് നമുക്ക് ഈ മത്സരങ്ങൾ തത്സമയം തിരയുന്ന പ്രവണതയുണ്ട് ഈ ലിങ്കിലെ ഈ മത്സരത്തിനുള്ള തത്സമയ വീഡിയോ ലഭിക്കും എന്ന് ഈ പോസ്റ്റ് പറയുന്ന ഒരു ഉദാഹരണം എടുക്കാം നിങ്ങളുടെ ലാപ്ടോപ്പിലോ ഫോണിലോ ഇത് കാണാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഈ ഗെയിമിനെക്കുറിച്ച് സംസാരിക്കുന്ന ഈ ലിങ്കുകൾ നിങ്ങൾ നോക്കുകയും യഥാർത്ഥത്തിൽ അത് നിങ്ങളെ ഒരു വ്യാജ വെബ്സൈറ്റിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യും വ്യാജ തത്സമയ സ്ട്രീമിംഗ് വീഡിയോകളിൽ യഥാർത്ഥ വീഡിയോകൾ ഉണ്ടാകില്ല എന്നാൽ തട്ടിപ്പുകാർ യഥാർത്ഥത്തിൽ ഉപയോക്താക്കളെ വ്യാജ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു ചില ഗെയിമുകളുടെയോ ചില പരിപാടികളുടെയോ ചില ഷോകളുടെയോ പശ്ചാത്തലത്തിലാണ് അവർ ഇത് ചെയ്യുന്നത് ഉദാഹരണത്തിന് റിയോയുടെ കാര്യത്തിൽ നിലവിൽ ഇന്ത്യ മെഡൽ നേടിയിട്ടുണ്ടെന്നും മത്സരത്തിന്റെ വീഡിയോ ഇവിടെ ലഭിക്കും എന്ന് ആരെങ്കിലും പറയുന്നു അതിനാൽ തത്സമയ സ്ട്രീമിംഗ് വീഡിയോകളുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന കുംഭകോണം ആണ് അത് അടുത്തത് വ്യാജ ഓൺലൈൻ ഡിസ്കൌണ്ടുകളാണ് അഴിമതിക്കാർ യഥാർത്ഥ അക്കൌണ്ട് അല്ലെങ്കിൽ യഥാർത്ഥ ഓർഗനൈസേഷൻ എടുക്കുന്നു ഈ സാഹചര്യത്തിൽ അത് നെറ്റ്ഫ്ലിക്സ് ആകാം ഫേസ്ബുക്ക് ആകാം ഫ്ലിപ്കാർട്ട് ആകാം അല്ലെങ്കിൽ ഏതെങ്കിലും യഥാർത്ഥ സ്ഥാപനം ആകാം യഥാർത്ഥ ബിസിനസ്സ് പോലെ തോന്നിക്കുന്ന വ്യാജ അക്കൌണ്ടുകൾ അവർ സൃഷ്ടിക്കുകയും നിങ്ങൾക്ക് കിഴിവുകൾ നൽകിക്കൊണ്ട് അവർ യഥാർത്ഥത്തിൽ ബിസിനസ്സ് നടത്തുകയും ചെയ്യുന്നു എന്നാൽ അവർ വ്യാജ ലിസ്റ്റുകൾ ഉപയോഗിക്കും ഉദാഹരണത്തിന് നെറ്റ്ഫ്ലിക്സ് ന് പറയാൻ കഴിയും നിങ്ങൾ ഇപ്പോൾ തുറക്കുന്ന നെറ്റ്ഫ്ലെക്സ് അക്കൌണ്ടിൽ 10 ശതമാനം കിഴിവ് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അക്കൌണ്ട് തുറക്കുകയാണെങ്കിൽ അടുത്ത 6 മാസത്തേക്ക് 40 ശതമാനം കിഴിവ് ഉണ്ട് എന്ന് യഥാർത്ഥത്തിൽ ഈ പേജ് ഒരു വ്യാജ പേജാണ് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾക്ക് യഥാർത്ഥത്തിൽ ഈ വ്യാജ അക്കൌണ്ടുകൾ വ്യാജ പേജുകൾ വ്യാജ സേവനങ്ങൾ എന്നിവയിലേക്ക് ആളുകളെ ആകർഷിക്കാൻ കഴിയും അതിനാൽ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന അടുത്ത വ്യാജ കുറ്റകൃത്യമാണ് അത് അടുത്ത തരം എന്നത് വ്യാജ ഓൺലൈൻ സർവേകളും മത്സരങ്ങളും ആണ് ഇത്തരത്തിലുള്ള അഴിമതികൾ വളരെക്കാലമായി നിലനിൽക്കുന്നു ഇവിടെ ഈ കുറ്റവാളികൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് സർവേയിൽ പങ്കെടുക്കാനും കുറച്ച് പണം ലഭിക്കാനും സർവേ പൂരിപ്പിക്കാനും കുറച്ച് വിവരങ്ങൾ നേടാനും ആണ് ഉദാഹരണത്തിന് നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങൾക്ക് എങ്ങനെ അറിയാം പേഴ്സണാലിറ്റി ടെസ്റ്റ് നടത്താനും നിങ്ങളുടെ തീയതിയുമായി ബന്ധമുള്ള അതേ വ്യക്തിത്വവും അതുപോലുള്ള കാര്യങ്ങളും ഉള്ള മറ്റ് ആളുകളെ കണ്ടെത്താനും അവർ ആവശ്യപ്പെടുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെക്കാലമായി നിലനിൽക്കുന്നു ഈ സർവേ പൂരിപ്പിച്ചാൽ 1000 രൂപ നേടുക തുടങ്ങിയ മത്സരങ്ങളും ഉണ്ട് ഇവ പരമ്പരാഗത രീതികളിൽ ഉണ്ട് ഇപ്പോൾ ഇവ ഇപ്പോൾ സോഷ്യൽ മീഡിയ സേവനങ്ങളിലേക്ക് നീങ്ങി ഉദാഹരണത്തിന് മറ്റുള്ളവർ എന്താണ് ചോദിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ എന്ത് അറിയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ഗവേഷണ സർവേകളിൽ പങ്കെടുക്കുക സമ്മാനങ്ങൾ നേടാൻ പ്രവേശിക്കുക തുടങ്ങിയവക്ക് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുക എന്നിങ്ങനെ ലഭിക്കും ഇത് വ്യാജ അവകാശവാദമാണ് ഇത് യഥാർത്ഥത്തിൽ മലീഷ്യസ് ആകാം ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ വ്യക്തിപരമായ വിവരങ്ങൾ ശേഖരിച്ചേക്കാം എന്നാൽ ഇത് ആരംഭിക്കുന്നതിന്റെ ഉറവിടം ഒരു സർവേയിലോ മത്സരത്തിലോ ലിങ്കിൽ ക്ലിക്കുചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടു ആയിരിക്കും അതിനാൽ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുമെന്ന് കരുതിയ അവസാന സൈബർ വ്യാജ പതിപ്പാണ് അത് വ്യാജ ഉപഭോക്തൃ സേവന അക്കൌണ്ട് ജനപ്രിയ പോസ്റ്റിലെ വ്യാജ അഭിപ്രായങ്ങൾ വ്യാജ തത്സമയ സ്ട്രീമിംഗ് വീഡിയോകൾ വ്യാജ ഓൺലൈൻ ഡിസ്കൌണ്ടുകൾ വ്യാജ ഓൺലൈൻ സർവേകൾ മത്സരങ്ങൾ എന്നിവയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ചിന്തിക്കാവുന്ന ചില വ്യാജ കുറ്റകൃത്യങ്ങൾ അതിനാൽ സോഷ്യൽ മീഡിയ സേവനങ്ങളിൽ ഉണ്ടാകുന്ന വിവിധ തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഇവയാണ് ഞാൻ കുറച്ച് കൂടി ഉദാഹരണങ്ങൾ തരാം ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ സംസാരിക്കാൻ പോകുന്ന വ്യത്യസ്ത തരത്തിലുള്ള വ്യാജ കുറ്റകൃത്യങ്ങൾ ഞാൻ കാണിച്ച എന്റെ ആദ്യ സ്ലൈഡ് നിങ്ങൾ നോക്കിയാൽ ആ ഭാഗം വ്യാജ കുറ്റകൃത്യങ്ങൾ കുറിച്ചായിരുന്നു മറ്റൊന്ന് വ്യാജ ടിപ്പ് ഏറ്റവും പ്രശസ്തമായ ലൊക്കേഷൻ അധിഷ്ഠിത സോഷ്യൽ നെറ്റ്വർക്കാണ് ഫോർസ്ക്വയർ ഉദാഹരണത്തിന് ഫോർസ്ക്വയറിൽ എനിക്ക് ശരിക്കും ഐഐടിയിലേക്ക് പോകാം തുടർന്ന് ഞാൻ ഡൽഹി ഐഐടിയിൽ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടെന്ന് പറയാം ഞാൻ ശരവണ ഭവനിലേക്ക് പോയി എന്നൊരു ടിപ്പ് നിങ്ങൾക്ക് നൽകാം ഞാൻ ശരവണ ഭവനിൽ ഭക്ഷണം കഴിച്ചു ഭക്ഷണം വളരെ നല്ലതാണെന്ന് എനിക്ക് പറയാൻ കഴിയും അതിനാൽ ആ ടിപ്പ് ൽ തട്ടിപ്പുകാരും കുറ്റവാളികളും യഥാർത്ഥത്തിൽ നിങ്ങളെ ഒരു വ്യാജ വെബ്സൈറ്റിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന വിവരങ്ങൾ പോസ്റ്റ് ചെയ്യുന്നു ഉദാഹരണത്തിന് സേൻഗോ മാംഗോസ്റ്റീൻ ജ്യൂസ് എന്നിവ മികച്ച വിലയ്ക്ക് ലഭിക്കുന്നതിന് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഒരു പ്രത്യേക സ്ഥലത്ത് പോസ്റ്റ് ചെയ്ത ടിപ്പ് ഇതാണ് അതിനാൽ ഇത് യഥാർത്ഥത്തിൽ ഫിഷിംഗ് ആയേക്കാവുന്ന ലിങ്കിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു അതിനാൽ ഇത് പഠിക്കുകയും നിങ്ങൾക്ക് വിവരങ്ങൾ നൽകുകയും ചില ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള പരസ്യം നൽകുകയും ചെയ്യുന്നു അതിനാൽ അത് വ്യാജ ടിപ്പ് ആണ് ആ പ്രത്യേക വേദിക്ക് പ്രസക്തമല്ലാത്ത ഒരു ടിപ്പ് ൽ പോസ്റ്റ് ചെയ്ത വിവരങ്ങളും നിങ്ങളെ ഒരു വ്യാജ ഉള്ളടക്കത്തിലേക്ക് കൊണ്ടുപോകുന്നു അതിനാൽ അതാണ് വ്യാജ ഫോർസ്ക്വയർ അക്കൌണ്ട് സാമൂഹിക പ്രശസ്തി ഇപ്പോൾ ഒരു വലിയ കാര്യമായി മാറിയിരിക്കുന്നു എല്ലാവരും സംസാരിക്കുന്നത് എനിക്ക് 2 5 മില്യൺ ഉപയോക്താക്കളും പിന്നെ 2 5 മില്യൺ ഫോളോവേഴ്സും ഉണ്ട് പേജിൽ ഇത്ര ലൈക്കുകൾ ഉണ്ട് എന്നിങ്ങനെ ആണ് സമൂഹത്തിൽ ആളുകൾ നിങ്ങളുടെ സ്വാധീനം അളക്കുന്ന രീതിയാണിത് സുഹൃത്തുക്കൾക്കിടയിൽ പോലും അത് ഉണ്ട് അത് പ്രശസ്തരും രാഷ്ട്രീയക്കാരും ആയിരിക്കണമെന്നില്ല സുഹൃത്തുക്കൾക്കിടയിൽ പോലും മറ്റുള്ളവർക്ക് എത്ര സുഹൃത്തുക്കളുണ്ട് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ജിജ്ഞാസയുണ്ട് സോഷ്യൽ മീഡിയയിലെ സാന്നിധ്യം പോസ്റ്റുകളിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ലൈക്കുകളുടെ എണ്ണം നിങ്ങളുടെ സുഹൃത്തുക്കളുടെ എണ്ണം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ സാമൂഹിക നില അളക്കുന്നത് ഇത് കൂടുതൽ കൂടുതൽ ജനപ്രിയമാവുകയാണ് ഉദാഹരണത്തിന് ഫേസ്ബുക്ക് ലൈക്കുകൾ ആമസോൺ അവലോകനങ്ങൾ യൂട്യൂബ് ലൈക്കുകൾ ലിങ്ക്ഡ്ഇനിൽ സംഭവിക്കുന്ന അംഗീകാരം ഒരു പ്രത്യേക വിഷയത്തിന് നിങ്ങൾ അംഗീകാരം നൽകുന്നു എത്ര പേർ നിങ്ങളെ അംഗീകരിച്ചു ഏത് വിഷയങ്ങളാണ് നിങ്ങൾ അംഗീകരിച്ചത് എന്നിവ ഉദാഹരണങ്ങൾ ആണ് ഇവ സമൂഹത്തിലെ സ്വാധീനത്തിന്റെ അളവുകോലായി മാറുകയാണ് ട്വീറ്റുകളുടെ എണ്ണം ഫോളോവേഴ്സിന്റെ എണ്ണം പിന്തുടരുന്നവരുടെ എണ്ണം അവയെല്ലാം നിങ്ങളുടെ സാമൂഹിക പ്രശസ്തിയെക്കുറിച്ച് ആളുകൾ ചിന്തിക്കുന്ന ഒരു അളവുകോലായി മാറുന്നു എന്നാൽ യഥാർത്ഥത്തിൽ അവർക്കെല്ലാം പ്രശ്നങ്ങളുമുണ്ട് എന്നതാണ് ഈ കാര്യങ്ങൾ കാരണം സാമൂഹിക പ്രശസ്തി സൃഷ്ടിക്കുന്നത് സംഭവിക്കുന്നു നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഈ സാമൂഹിക പ്രശസ്തിയും കൃത്രിമം ചെയ്യാൻ കഴിയും ഈ സാഹചര്യത്തിൽ ഞാൻ ഇവിടെ നൽകുന്ന ഉദാഹരണം ഫ്ലിപ്കാർട്ട് ആണ് ഉൽപ്പന്നത്തെക്കുറിച്ച് നല്ല അവലോകനങ്ങൾ എഴുതുന്നതിലൂടെ സാമൂഹിക പ്രശസ്തി കൈകാര്യം ചെയ്യാൻ കഴിയും അതിനാൽ ഉൽപ്പന്നത്തിന്റെയോ കമ്പനിയുടേയോ വിൽപ്പനക്കാരന്റേയോ സാമൂഹിക പ്രശസ്തിയിൽ കൃത്രിമം കാണിക്കാൻ കഴിയുന്ന ഒരു വലിയ മാർഗമാണ് അവലോകനങ്ങൾ അവയെല്ലാം കൃത്രിമം ചെയ്യാൻ കഴിയും ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ ഉള്ള ഉൽപ്പന്നങ്ങളുടെ അവലോകനങ്ങൾ പഠിക്കുന്ന കാര്യത്തിൽ ഇത് വളരെ വലിയ പ്രശ്നമാണ് വ്യാജ അവലോകനങ്ങളുടെ പേരിൽ ആമസോൺ 1000 പേർക്കെതിരെ കേസെടുത്തു ആളുകൾ വളരെക്കാലമായി അത്തരം അവലോകന പ്രശ്നങ്ങൾ പഠിക്കുന്നു ഇത് അവലോകനങ്ങൾ മാത്രമല്ല വ്യാജ അനുയായികളെക്കുറിച്ച് പഠിക്കുക വ്യാജ അംഗീകാരങ്ങൾ പഠിക്കുക അവയെല്ലാം യഥാർത്ഥത്തിൽ പ്രസക്തമായ പ്രശ്നങ്ങളാണ് ഇവയിൽ ചിലത് ഏറ്റെടുക്കാൻ ആർക്കെങ്കിലും താൽപ്പര്യമുണ്ടെങ്കിൽ ഇവ യഥാർത്ഥത്തിൽ വളരെ രസകരമായ പ്രശ്നങ്ങളാണ് വളരെ വെല്ലുവിളി നിറഞ്ഞ പ്രശ്നങ്ങളും വളരെ യഥാർത്ഥ ലോക പ്രശ്നങ്ങളും അതായത് ആളുകളുടെ ചിന്തയെ സ്വാധീനിച്ചുകൊണ്ട് നിങ്ങൾ നിർമ്മിക്കുന്ന പരിഹാരങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും സോഷ്യൽ മീഡിയയിലെ കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ മറ്റൊരു പ്രശ്നം ക്ലിക്ക്ബൈറ്റിംഗ് ആണ് ഇവിടെ നിങ്ങൾ ഒരു വെബ്സൈറ്റിന്റെ യഥാർത്ഥ ഡയറക്ടറാണ് അതിനാൽ നിങ്ങൾ വാർത്തയുടെ ഒരു പ്രത്യേക പേജ് വായിക്കുന്നു ചിലപ്പോഴൊക്കെ പ്രസക്തമായതോ ചിലപ്പോൾ പ്രസക്തമല്ലാത്തതോ ആയ വിവരങ്ങൾ അവർ നിങ്ങൾക്ക് അവതരിപ്പിക്കുകയും അവർ നിങ്ങളെ ഒരു വ്യാജ വെബ്സൈറ്റിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യും അതിനാൽ ഈ കേസിലും ഇവിടെ ലിങ്ക് ഈ വിവരങ്ങൾ യഥാർത്ഥത്തിൽ ഒരു സോഷ്യൽ മീഡിയ സേവനങ്ങളിൽ അവതരിപ്പിച്ചു അവിടെ അത് ഒരു വ്യാജ വെബ്സൈറ്റിലേക്ക് കൊണ്ടുപോകുന്നു അതിനാൽ നിയമാനുസൃതമല്ലാത്ത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാൻ ക്ലിക്ക്ബൈറ്റിംഗ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നു ഹാഷ്ടാഗ് ഹൈജാക്കിംഗ് ആണ് മറ്റൊരു പ്രശ്നം ഹാഷ്ടാഗ് ഹൈജാക്കിംഗും ഈ ദിവസങ്ങളിൽ ഒരു വലിയ പ്രശ്നമായി മാറുകയാണ് ഹാഷ്ടാഗ് എന്താണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു ഒരു പ്രത്യേക കൂട്ടം ട്വീറ്റുകൾ ഫോക്കസ് ചെയ്യുന്ന രീതിയാണ് ഹാഷ്ടാഗ് നിങ്ങൾക്ക് ഇപ്പോൾ ഒളിമ്പിക്സിനെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ റിയോ 2016 എന്ന ഹാഷ്ടാഗ് ഉപയോഗിക്കുക അങ്ങനെയാണ് റിയോ 2016 എന്ന ഹാഷ്ടാഗ് ഉപയോഗിക്കുന്നത് ഞാൻ പോസ്റ്റുചെയ്യുന്ന ഉള്ളടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ പറയുന്നു അതിനാൽ ട്വിറ്ററിന് യഥാർത്ഥത്തിൽ റിയോ 2016 എന്ന ഹാഷ്ടാഗ് ഉള്ള എല്ലാ പോസ്റ്റുകളും കൊണ്ടുവന്ന് അതിൽ താൽപ്പര്യമുള്ള ആളുകളെ കാണിക്കാൻ കഴിയും അതിനാൽ ഒരു ഹാഷ്ടാഗ് ഉപയോഗിക്കുന്നതിന്റെ പിന്നിലെ യുക്തി ഇതാണ് ഈ ഉദാഹരണത്തിൽ കൊക്കോകോള യഥാർത്ഥത്തിൽ ഒരു ട്വീറ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് റോയൽ സെലിബ്രേഷൻ ടൈം ഫോർ റോയൽ ബേബി എന്ന ഹാഷ്ടാഗ് ഇവിടെ കോക്ക് ചെയ്യുന്നത് എന്താണ് കോക്ക് ഒരു ഹാഷ്ടാഗ് ഉപയോഗിക്കുന്നു അത് അവരുടെ ഉൽപ്പന്നം വിൽക്കുന്നതിന് വളരെ ജനപ്രിയമാണ് അത് ഹൈജാക്കിംഗിന്റെ ഉദാഹരണമാണ് റോയൽ ബേബി കോക്കിന് പ്രസക്തമല്ല അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ അവർ അത് ഉപയോഗിക്കുന്നു അതിനാൽ ഹാഷ്ടാഗ് ഹൈജാക്ക് ചെയ്യുന്നതിനുള്ള ഒരു മാർഗമാണിത് മറ്റൊരു ഉദാഹരണം ഇതാ ഞാൻ എന്തുകൊണ്ട് താമസിച്ചു എന്നത് ഒരു ജനപ്രിയ ഹാഷ് ടാഗ് ആണ് ഡി ജിയോർനോ പിസ്സ അവരുടെ പിസ്സ വിൽക്കാനും പരാമർശിക്കാനും ഞാൻ എന്തിനാണ് താമസിച്ചത് എന്ന ഹാഷ്ടാഗ് ഉപയോഗിച്ചു പക്ഷേ നിർഭാഗ്യവശാൽ ഇതും തിരിച്ചടിച്ചു ഇതിന് ശേഷം അവർക്ക് ഈ പോസ്റ്റ് ചെയ്തതിന് ശരിക്കും മാപ്പ് പറയേണ്ടി വന്നു ഒരു ദശലക്ഷം ക്ഷമാപണം ഹാഷ്ടാഗ് എന്താണെന്ന് വായിച്ചില്ല ഒരു പ്രത്യേക സാഹചര്യത്തെക്കുറിച്ചുള്ള ഈ ഹാഷ്ടാഗ് സംസാരിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ചില സന്ദർഭങ്ങളിൽ ഹാഷ്ടാഗ് ഉപയോഗിച്ചു അതിനാൽ ഈ വിഷയത്തിന് പ്രസക്തമല്ലാത്ത ഒരു ഹാഷ്ടാഗ് എടുക്കുന്നത് ഒരു ഉൽപ്പന്നം വിൽക്കാൻ ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ ഹൈജാക്കിംഗ് ആണ് ഉദാഹരണമായി റിയോ 2016 എന്ന ഹാഷ്ടാഗ് ഉപയോഗിച്ച് നിങ്ങൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ എന്തെങ്കിലും പറയും ഇത് റിയോ 2016 ഉള്ള പോസ്റ്റുകൾക്കായി ടൈംലൈൻ നോക്കുന്ന ആളുകളിൽ കാണിക്കും അതിനാൽ അതാണ് ഹാഷ്ടാഗ് ഹൈജാക്കിംഗ് ലെ പ്രശ്നം മറ്റൊരു പ്രശ്നം കോമ്പ്രോമൈസെഡ് അക്കൌണ്ടാണ് ഈ പ്രത്യേക ട്വീറ്റ് ഞാൻ യഥാർത്ഥത്തിൽ എന്റെ ട്രസ്റ്റ് ആൻഡ് ക്രെഡിബിലിറ്റി വിഭാഗത്തിൽ കാണിച്ചിട്ടുണ്ട് പക്ഷേ വ്യത്യസ്തമായ ഒരു പ്രശ്നം പറയാനാണ് ഞാൻ ഇത് തിരികെ കൊണ്ടുവന്നത് അപ്പോൾ ഞാൻ പ്രശ്നം വിശദീകരിച്ചതായി ഞാൻ കരുതുന്നു എന്നാൽ ഇ കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഞാൻ അത് വീണ്ടും വിശദീകരിക്കും അസോസിയേറ്റഡ് പ്രസ്സ് ഒരു പരിശോധിച്ചുറപ്പിച്ച അക്കൌണ്ടാണ് ഈ അക്കൌണ്ട് കുറച്ചുകാലം വിട്ടുവീഴ്ച ചെയ്യപ്പെട്ടു മറ്റൊരാൾക്ക് ഈ അക്കൌണ്ടിലേക്ക് ആക്സസ് ഉണ്ടായിരുന്നു അവർ പോസ്റ്റ് ചെയ്ത ട്വീറ്റ് ബ്രേക്കിംഗ് ന്യൂസ് വൈറ്റ് ഹൌസിൽ രണ്ട് സ്ഫോടനങ്ങൾ ബരാക് ഒബാമയ്ക്കു പരിക്കേറ്റു എന്നതാണ് ഈ ട്വീറ്റിന് ഉണ്ടായിരുന്ന പ്രഭാവം നിങ്ങൾക്കെല്ലാവർക്കും ആലോചിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അക്കൌണ്ട് അപഹരിക്കപ്പെട്ടതായി ഇത് അറിയപ്പെടുന്നു യൂസർ നെയിം പാസ്വേഡ് ചോർന്നതിനാൽ മറ്റൊരാൾക്ക് നിങ്ങളുടെ അക്കൌണ്ടിലേക്ക് ആക്സസ് ലഭിക്കുകയും അവർ അക്കൌണ്ട് ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്നു അത് കോമ്പ്രോമൈസെഡ് അക്കൌണ്ട് ആണ് ആൾമാറാട്ടം ആൾമാറാട്ടവും മറ്റൊരു പ്രശ്നമാണ് ഇതിൽ ഞാൻ ഒരു വ്യാജ അക്കൌണ്ട് സൃഷ്ടിക്കുന്നു ഉദാഹരണത്തിന് ഈ ക്ലാസ്സിലെ നിങ്ങളുടെ ചില വിശദാംശങ്ങൾ എനിക്ക് എടുക്കാം നിങ്ങളുടെ ചിത്രങ്ങളും നിങ്ങളുടെ നഗരവും എനിക്ക് ഓൺലൈൻ ഉറവിടങ്ങളിൽ നിന്ന് ശേഖരിക്കാവുന്ന വിവരങ്ങളും എനിക്കറിയാം യഥാർത്ഥത്തിൽ ഒരു അക്കൌണ്ട് സൃഷ്ടിക്കാൻ ഞാൻ ഈ വിവരങ്ങൾ ഉപയോഗിക്കുന്നു അത് നിങ്ങളാണെന്ന് തോന്നിപിക്കുന്നു കിരൺ റാവു തന്റെ പേരിൽ വ്യാജ അക്കൌണ്ട് സൃഷ്ടിച്ചുവെന്ന് പറഞ്ഞ് ഫയൽ ചെയ്ത പരാതിയുണ്ട് ഇതുപോലെ നിരവധി വ്യാജ അക്കൌണ്ടുകൾ ഉണ്ട് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ പോലീസ് വിഭാഗത്തിൽ പോലീസ് സംഘടനകളുടെ വ്യാജ അക്കൌണ്ടിനെക്കുറിച്ചും ഞാൻ കാണിച്ചുതന്നു ഇത് വ്യക്തികളെ മാത്രമല്ല ഓർഗനൈസേഷന്റെ അക്കൌണ്ടുകൾ പോലും വ്യാജമായി സൃഷ്ടിക്കപ്പെടാറുണ്ട് വർക്ക് ഫ്രം ഹോം തട്ടിപ്പു എന്ന മറ്റൊരു രസകരമായ പ്രശ്നം ഉണ്ട് ഈ കാര്യങ്ങൾ പരമ്പരാഗത രീതി ആണ് ഉദാഹരണത്തിന് നിങ്ങൾ എവിടെയെങ്കിലും ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ സിഗ്നലിൽ ഒരു ദിവസം 1000 രൂപ വീതം വീട്ടിൽ ഇരുന്നു സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ നമ്പറിൽ വിളിക്കൂ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് നിങ്ങൾ കാണും പിന്റെരെസ്റ് ൽ പ്രചരിച്ച ഒരു തട്ടിപ്പു ചിത്രത്തിന്റെ ഒരു ഉദാഹരണം ഉണ്ട് പ്രമുഖ കമ്പനികൾക്കായി സർവേ പൂരിപ്പിച്ച് അധിക ശമ്പളം നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വെബ്സൈറ്റ് ഇൽ പോകുക ഓരോ സർവേയിലും നിങ്ങൾക്ക് 5 മുതൽ 40 ഡോളർ വരെ ലഭിക്കും ഇത് വർക്ക് ഫ്രം ഹോം തട്ടിപ്പു ആണ് വർക്ക് ഫ്രം ഹോം തട്ടിപ്പുകൾക്ക് സമാനമായ നിരവധി തട്ടിപ്പുകൾ വീണ്ടും ഉണ്ട് സോഷ്യൽ നെറ്റ്വർക്കുകളിൽ വ്യത്യസ്ത പതിപ്പുകൾ വളരെ ജനപ്രിയമാണ് അതിനാൽ ഇതും ഒരു പ്രധാന തട്ടിപ്പു ആണ് അതോടെ ഞാൻ ആറാം ആഴ്ചയുടെ ആദ്യ ഭാഗം പൂർത്തിയാക്കുന്നു ഇവിടെ ഞാൻ നിങ്ങൾക്ക് വിവിധ തട്ടിപ്പുകൾ വ്യത്യസ്ത കുറ്റകൃത്യങ്ങൾ എന്നിവ പരിചയപ്പെടുത്തി കാരണം നമ്മൾ ഈ ആഴ്ച കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ആണ് സംസാരിക്കാൻ പോകുന്നത് വിവിധ കുറ്റകൃത്യങ്ങൾ നോക്കുമ്പോൾ ചില വിവരങ്ങൾ ശേഖരിച്ചു ഏതുതരം വിശകലനം നടത്താം സോഷ്യൽ നെറ്റ്വർക്കുകളിലെ കുറ്റകൃത്യങ്ങളുടെ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിന് നമുക്ക് എന്ത് പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ കഴിയും തുടങ്ങിയവ